ഏറ്റവും ദൈർഘ്യമേറിയ പൊതുവായ സബ്വേഡും തുടർന്നുള്ള പ്രശ്നവും നോക്കിയ നമ്മൾ ഇപ്പോൾ എഡിറ്റ് ഡിസ്ടെൻസ് എന്ന അടുത്ത ബന്ധമുള്ള പ്രശ്നത്തിലേക്ക് നോക്കുന്നു സമാനമായ രണ്ട് ടെക്സ്ചർ ഡോക്യുമെന്റ് സമാനത പ്രശ്നം എന്ന് വിളിക്കുന്നത് എത്രത്തോളം അളക്കുകയാണ് ലക്ഷ്യം അതിനാൽ ഇനിപ്പറയുന്ന രണ്ട് വാക്യങ്ങൾ നോക്കാം ആദ്യ വാചകം പറയുന്നത് ഒപ്റ്റിമൽ സബ്സ്ട്രക്ചർ പ്രോപ്പർട്ടി എന്ന ആശയം വിലമതിക്കാൻ വിദ്യാർത്ഥികൾക്കും അൽഗോരിതം രൂപകൽപ്പന ചെയ്യുന്നതിലെ ഉപയോഗത്തിനും കഴിഞ്ഞു രണ്ടാമത്തെ വാക്യം അൽഗോരിതം രൂപകൽപ്പന ചെയ്യുന്നതിന് ഒപ്റ്റിമൽ സബ്സ്ട്രക്ചറുകൾ എന്ന ആശയം എങ്ങനെ ഉപയോഗിക്കാമെന്ന് മനസിലാക്കാൻ പ്രഭാഷണം വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു അതിനാൽ ഇവിടെ മൂന്നാമത്തെ വാചകം സൂചിപ്പിക്കുന്നത് ഈ രണ്ടിൽ ഒന്ന് മറ്റൊന്നിൽ നിന്ന് എങ്ങനെ നേടാമെന്ന് ആണ് മാറ്റങ്ങൾ ട്രാക്കുചെയ്യാൻ നിങ്ങളെ അനുവദിക്കുന്ന ചില പ്രമാണ തയ്യാറാക്കൽ സംവിധാനങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സാധാരണയായി ഒരു പ്രമാണത്തിന്റെ ഒരു പതിപ്പും ഇതുപോലുള്ള മറ്റ് പതിപ്പുകളും തമ്മിലുള്ള മാറ്റങ്ങൾ സൂചിപ്പിക്കും ഇവിടെ പച്ച എന്നത് അക്ഷരങ്ങളെ സൂചിപ്പിക്കുന്നു നമ്മൾ പതിപ്പ് 1 എന്നും ഈ പതിപ്പ് 2 എന്നും വിളിക്കുകയാണെങ്കിൽ പതിപ്പ് 1 ൽ നിന്ന് പതിപ്പ് 2 ലേക്ക് പോകുമ്പോൾനമ്മൾ ചെയ്തത് നിങ്ങൾ പച്ച നിറത്തിലുള്ള അക്ഷരങ്ങൾ അവതരിപ്പിച്ചു എന്നതാണ് അതിനാൽ നിങ്ങൾ ഈ പ്രതീകങ്ങൾ ചേർത്തു ചുവപ്പ് നിറത്തിൽ അടയാളപ്പെടുത്തിയ അക്ഷരങ്ങൾ അവയിലൂടെ ഒരു വരി ഉപയോഗിച്ച് ഇല്ലാതാക്കി ഈ മഞ്ഞയിൽ നമ്മൾ മാറ്റിസ്ഥാപിച്ചു അതിനാൽ t നെ v ഉം s നെ n ഉം മാറ്റിസ്ഥാപിച്ചു നമുക്ക് 28 പ്രതീകങ്ങളുണ്ട് സ്പെയ്സുകളും മറ്റും ഉൾപ്പെടെ 28 പ്രതീകങ്ങൾ ചേർത്തിട്ടുണ്ടെന്ന് നമുക്ക് കണക്കാക്കാം 18 പ്രതീകങ്ങൾ ഇല്ലാതാക്കി 2 പ്രതീകങ്ങൾ പകരമായി നൽകി ഇപ്പോൾ രണ്ട് പ്രമാണങ്ങൾ പരസ്പരം എത്ര അടുപ്പമുള്ളതാണെന്ന് അളക്കുന്നതിന്റെ അടിസ്ഥാനമാണിത് അതിനാൽ ഒരു പ്രമാണത്തെ മറ്റൊന്നിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ എഡിറ്റ് പ്രവർത്തനങ്ങളുള്ള എഡിറ്റ് ഡിസ്റ്റ്ടെൻസ് അതിനാൽ പ്രവർത്തനങ്ങൾ എഡിറ്റുചെയ്യുന്നതിലൂടെ നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നിർവചിക്കേണ്ടതുണ്ട് നമുക്ക് വളരെ അടിസ്ഥാനപരമായ പ്രവർത്തനത്തിലൂടെ ആരംഭിക്കാം ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു പ്രതീകം ഉൾപ്പെടുത്താം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രതീകം ഇല്ലാതാക്കാൻ കഴിയും അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ ഒരു പ്രതീകത്തെ മറ്റൊന്നിലേക്ക് മാറ്റിസ്ഥാപിക്കാം തീർച്ചയായും മാറ്റിസ്ഥാപിക്കുന്നത് നമ്മളെ ഇല്ലാതാക്കുന്നതിനും ചേർക്കുന്നതിനും പഠിപ്പിച്ച ഒരു ചിന്തയായിരിക്കാം അതിനാൽ ഇത് രണ്ട് ഘട്ടങ്ങളായുള്ള പ്രവർത്തനങ്ങളാകാം ഞാൻ പ്രതീകം ഇല്ലാതാക്കുകയും തുടർന്ന് എനിക്ക് ആവശ്യമുള്ള പ്രതീകം ചേർക്കുകയും ചെയ്യുന്നു പക്ഷേ ഒരൊറ്റ പ്രവർത്തനമായി ഒരു അക്ഷരം a ബൈ b അല്ലെങ്കിൽ s ബൈ t ഉപയോഗിച്ച് മാറ്റാൻ ഞാൻ അനുവദിക്കും നമ്മുടെ ഉദാഹരണത്തിൽ 28 പ്രതീകങ്ങൾ ചേർത്തിട്ടുണ്ടെന്നും 18 എണ്ണം ഇല്ലാതാക്കിയെന്നും 2 എണ്ണം പകരംവച്ചതായും നമ്മൾ അവകാശപ്പെട്ടു അതിനാൽ നമ്മൾ വരുത്തിയ ആകെ മാറ്റങ്ങളുടെ എണ്ണം 48 ആണ് എഡിറ്റ് ഡിസ്റ്റ്ടെൻസ് ഏറ്റവും കുറഞ്ഞ മാറ്റങ്ങളാണെന്ന് കരുതുകയാണെങ്കിൽ അത് 48 ആകാൻ പാടില്ല കാരണം 48 പ്രതീകങ്ങളിൽ ഇത് ചെയ്യാൻ കഴിയുമെന്ന് അവർ ഇതിനകം കാണിച്ചുതന്നിട്ടുണ്ട് ഇത് 48 ൽ താഴെയായി കൂടുതൽ ബുദ്ധിപൂർവ്വം ചെയ്യാൻ കഴിയും അതിനാൽ എഡിറ്റ് നമ്മൾ നേരത്തെ കാണിച്ച രണ്ട് വാക്യങ്ങളുടെ പരമാവധി ദൂരം 48 ആണ് ഈ ദൂരത്തെ ലെവൻസ്റ്റൈൻ ദൂരം എന്നും വിളിക്കുന്നു കാരണം ഇത് ആദ്യമായി സോവിയറ്റ് ഇപ്പോൾ റഷ്യൻ ശാസ്ത്രജ്ഞനായ വ്ളാഡിമിർ ലെവൻസ്റ്റൈൻ നിർദ്ദേശിച്ചതാണ് ഇത് ഏറ്റവും ദൈർഘ്യമേറിയ തുടർന്നുള്ള പ്രശ്നം പോലെ പ്രായോഗികമായി വളരെ ഉപയോഗപ്രദമാണ് അതിനാൽ ആദ്യത്തെ കാര്യം സ്പെല്ലിംഗ് തിരുത്തലുകൾ നിർദ്ദേശിക്കുക എന്നതാണ് ഇപ്പോൾ ആരെങ്കിലും തെറ്റായ എന്തെങ്കിലും ടൈപ്പുചെയ്യുകയാണെങ്കിൽ അത് അക്ഷരത്തെറ്റ് തിരുത്തലാണ് അത് മാറ്റിസ്ഥാപിക്കുന്നതിന് നിഘണ്ടുവിൽ നിന്ന് ശരിയായ പദം നിർദ്ദേശിക്കേണ്ടതുണ്ട് അതിനാൽ സ്പെല്ലിംഗ് തിരുത്തൽ ഏത് പദം തിരഞ്ഞെടുക്കണം തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു മാനദണ്ഡം നിഘണ്ടുവിലെ എല്ലാ പദങ്ങളും ടൈപ്പ് ചെയ്തതിന് ഏറ്റവും അടുത്തുള്ളവയെ തിരിച്ചറിയുക എന്നതാണ് ഈ എഡിറ്റ് ഡിസ്റ്റ്ടെന്സിന്റെ അടിസ്ഥാനത്തിൽ ഇത് അളക്കാൻ കഴിയും തുടർന്ന് നിങ്ങൾ പലരും സമയം കാണുക 0329 കാണുക നിങ്ങൾ ടൈപ്പിസ്റ്റ് എന്നാണ് ഉദ്ദേശിച്ചത് നിങ്ങൾ അന്വേഷണങ്ങളും സേർച്ച് എഞ്ചിനുകളും ടൈപ്പുചെയ്യുമ്പോഴും ഇത് സംഭവിക്കുന്നു അതിനാൽ നിങ്ങൾ ഗൂഗിളിൽ എന്തെങ്കിലും ടൈപ്പുചെയ്യുകയാണെങ്കിൽ ഗൂഗിൾ ചിലപ്പോൾ നിങ്ങളുടെ ചോദ്യത്തെ അർത്ഥവത്തായ ഒരു പദത്തിലേക്ക് മാറ്റും കാരണം നിങ്ങൾ ഒരു പേരോ ആശയമോ തെറ്റായി ടൈപ്പുചെയ്തുവെന്ന് ഇത് തിരിച്ചറിയുന്നു നമ്മൾ നേരത്തെ കണ്ട ഏറ്റവും ദൈർഘ്യമേറിയ തുടർന്നുള്ള പ്രശ്നം ജനിതകശാസ്ത്രത്തിലും ബയോ ഇൻഫോർമാറ്റിക്സിലും അതുപോലെ തന്നെ ദൂരം എഡിറ്റുചെയ്യാനും ഉപയോഗപ്രദമാണെന്ന് പറഞ്ഞു ജനിതക വിവരങ്ങൾ രണ്ട് വ്യത്യസ്ത ഇനങ്ങളിൽ താരതമ്യം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ താരതമ്യം ചെയ്യുന്നത് സ്വാഭാവികമാണ് ഡിഎൻഎയുടെയും അവയുടെ ഉള്ളടക്കത്തിന്റെ കാര്യത്തിൽ അവയ്ക്ക് നീളമുള്ള സ്റ്റിക്കുകളുണ്ട് അതിനാൽ ഒരു ഡിഎൻഎയുടെ ഒരു ഭാഗം മറ്റൊന്നിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് എത്ര എളുപ്പമോ ബുദ്ധിമുട്ടുള്ളതോ ആണെന്ന് നിങ്ങൾ കണ്ടെത്തണം അതിനനുസരിച്ച് രണ്ട് സ്പീഷീസുകൾ പരസ്പരം അടച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും നിങ്ങൾ ഏറ്റവും ദൈർഘ്യമേറിയ തുടർന്നുള്ള പ്രശ്നത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ ദൈർഘ്യമേറിയ പൊതുവായ തുടർനടപടികളെക്കുറിച്ച് ചിന്തിക്കുന്നതിനുള്ള ഒരു മാർഗ്ഗം എൽസിഎസിന്റെ ഭാഗമല്ലാത്ത എല്ലാ ഭാഗങ്ങളും ഞാൻ ഇല്ലാതാക്കുന്നുവെന്ന് കരുതുക എനിക്ക് ബൈസെക്ടും സീക്രെട്ടും പോലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ നിന്ന് b യും i ഉം ഇവിടെ നിന്നും r e ഉം ഇല്ലാതാക്കിയാൽ ഏറ്റവും ദൈർഘ്യമേറിയ പൊതുവായ തുടർച്ചയാണ് എനിക്ക് അവശേഷിക്കുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനുള്ള മറ്റൊരു മാർഗ്ഗം ഐഡന്റിറ്റി അനുവദിക്കുക എന്നതാണ് ഞാൻ ഒരു വാക്കിൽ നിന്ന് ആരംഭിക്കുകയും അതിനെ ഈ പദത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയും ചെയ്യുന്നു അതിനാൽ ഞാൻ ആദ്യം ബി ഐ എന്നിവ ഇല്ലാതാക്കുകയും തുടർന്ന് ഞാൻ ഇവിടെ r e ചേർക്കുകയും ചെയ്യുന്നു ഞാൻ രണ്ട് വാക്കുകളിലും പ്രവർത്തിക്കുന്നില്ല രണ്ടിൽ നിന്നും ഇല്ലാതാക്കുക ഞാൻ പ്രവർത്തിക്കുന്നത് ആദ്യ പദത്തിൽ മാത്രമാണ് ഞാൻ വാക്കുകൾ ഇല്ലാതാക്കുന്നു എനിക്ക് ആവശ്യമില്ലാത്ത അക്ഷരങ്ങൾ ഞാൻ ഇല്ലാതാക്കുന്നു കാരണം എനിക്ക് രണ്ടാമത്തെ വാക്ക് ഇല്ലാത്തതിനാൽ ഞാൻ അക്ഷരം തിരുകുന്നു അതിനാൽ ആദ്യത്തേതിലല്ല രണ്ടാമത്തേതിൽ ഉള്ളവ ഞാൻ ആഗ്രഹിക്കുന്നു ഈ രീതിയിൽ ഞാൻ ആദ്യ വാക്ക് രണ്ടാമത്തെ പദത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നു ഇത് രണ്ടിൽ നിന്നും ഇല്ലാതാക്കുന്നതിന് തുല്യമാണ് മാത്രമല്ല ഇത് ഒരു പൊതുവായ തുടർച്ചയിലേക്ക് വരികയും ചെയ്യും അതിനാൽ ഇല്ലാതാക്കാനും തിരുകാനും മാത്രമേ ഞാൻ അനുവദിക്കുകയുള്ളൂവെങ്കിൽ എഡിറ്റ് ഡിസ്റ്റ്ടെൻസ് കണക്കാക്കുന്നതിന് എൽസിഎസ് എങ്ങനെയെങ്കിലും തുല്യമാണെന്ന് ഇത് നമ്മളോട് പറയുന്നു അതിനാൽ എഡിറ്റ് ഡിസ്റ്റ്ടെന്സിനെക്കുറിച്ചുള്ള രസകരമായ കാര്യം ഇത് ഒരു പ്രതീകത്തിനും മറ്റൊന്നിനും പകരമാവാനും അനുവദിക്കുന്നു അതിനാൽ ഏറ്റവും ദൈർഘ്യമേറിയ പൊതുവായ തുടർച്ചയിൽ നിന്ന് അല്പം വ്യത്യസ്തമായ മെട്രിക് ഇത് നമുക്ക് നൽകിയേക്കാം ഏറ്റവും ദൈർഘ്യമേറിയ പൊതുവായ തുടർച്ചയിലേക്ക് പോകുമ്പോൾ ഒരു വാക്കിന്റെ തുടക്കത്തിൽ രണ്ട് അക്ഷരങ്ങൾ പൊരുത്തപ്പെടുന്നുവെങ്കിൽ പൊതുവായ തുടർച്ചയിൽ അത് ഉൾപ്പെടുന്നുവെന്ന് അനുമാനിക്കുന്നത് ഉപയോഗപ്രദമാണ് എനിക്ക് ഇത് a i b j യ്ക്ക് തുല്യമാണെന്ന് പറയുന്ന ഒന്നാണ് അതിനാൽ ഇത് എന്റെ തുടർന്നുള്ളവയിൽ ഉൾപ്പെടുത്തുകയും ബാക്കി പ്രശ്നം പരിഹരിക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ a i അല്ലെങ്കിൽ b j ഉപേക്ഷിച്ച് എനിക്ക് ലഭിക്കുന്ന രണ്ട് ഉപ പ്രശ്നങ്ങളുടെ പരമാവധി ഞാൻ എടുക്കുന്നു ഇപ്പോൾ എഡിറ്റ് ഡിസ്റ്റ്ടെൻസ് പ്രശ്നത്തിൽ നമുക്ക് സമാനമായ ഒരു മാനദണ്ഡമുണ്ട് a i b j യ്ക്ക് തുല്യമാണെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാനില്ല അതിനാൽ i j എന്നിവയിൽ ആരംഭിക്കുന്ന പദത്തിന്റെ എഡിറ്റ് ഡിസ്റ്റ്ടെൻസ് i പ്ലസ് 1 j പ്ലസ് 1 ൽ ആരംഭിക്കുന്ന എഡിറ്റ് ഡിസ്റ്റ്ടെൻസിന് തുല്യമാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് ഏറ്റവും ദൈർഘ്യമേറിയ പൊതുവായ തുടർച്ചയ്ക്ക് വിപരീതമാണ് ഇപ്പോൾ നമ്മൾ എണ്ണം കുറയ്ക്കാൻ പൊരുത്തങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് മാറ്റങ്ങൾ ശ്രമിക്കുകയാണ് അതിനാൽ എന്തെങ്കിലും ഇതിനകം പൊരുത്തപ്പെടുന്നതായി കാണുകയാണെങ്കിൽ മാറ്റങ്ങളൊന്നും ആവശ്യമില്ല അതിനാൽ നമ്മൾ അടുത്ത സ്ഥാനത്തേക്ക് പോകും ഇപ്പോൾ അവ പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ മൂന്ന് കാര്യങ്ങൾ സാധ്യമാണ് എനിക്ക് a i a i plus 1 എന്നിങ്ങനെയുള്ളവയും എനിക്ക് b j b j plus 1 ഉം മറ്റും ഉണ്ട് ആദ്യം എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ഇത് നേരിട്ട് b j ആക്കാം ഈ സാഹചര്യത്തിൽ ഞാൻ ഇപ്പോൾ ആദ്യത്തെ അക്ഷരങ്ങൾ കൃത്യമായി തുല്യമാക്കിയിരിക്കുന്നു അതിനാൽ ഞാൻ i പ്ലസ് 1 ജെ പ്ലസ് 1 നോക്കേണ്ടതുണ്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ a i എല്ലാം ഒരുമിച്ച് നീക്കംചെയ്യുക എന്നതാണ് ഞാൻ ഇത് നീക്കംചെയ്യുന്നു ഇപ്പോൾ ഈ അസ്വസ്ഥത ഇല്ലാതായി പക്ഷേ അവശേഷിക്കുന്ന പ്രശ്നത്തിലേക്ക് ഞാൻ ഇപ്പോഴും അവശേഷിക്കുന്നു ഇപ്പോൾ ഞാൻ i പ്ലസ് 1 മുതൽ j വരെ പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട് അവസാനമായി എനിക്ക് ചെയ്യാൻ കഴിഞ്ഞ അവസാന കാര്യം ഈ b j തുടക്കത്തിൽ തന്നെ അവതരിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ ഇതിനർത്ഥം ഈ രണ്ട് കാര്യങ്ങളും ഇപ്പോൾ പൊരുത്തപ്പെടുന്നു എന്നാണ് ഞാൻ a i മുതൽ b j പ്ലസ് 1 വരെ നോക്കേണ്ടതുണ്ട് ഈ മൂന്നിൽ ഏതിലെങ്കിലും മൊത്തത്തിലുള്ള ഏറ്റവും കുറഞ്ഞ ജോലി ആവശ്യമാണ് i 1 പരിഹാരത്തിൽ 1 പ്ലസ് എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു 1 പ്ലസ് 1 ജെ പ്ലസ് 1 അല്ലെങ്കിൽ 1 പ്ലസ് സൊല്യൂഷൻ ഐ പ്ലസ് 1 ജെ അല്ലെങ്കിൽ ഐജെ പ്ലസ് 1 ന് 1 പ്ലസ് സൊല്യൂഷൻ കൂടാതെ ഈ മൂന്നിൽ ഏറ്റവും കുറഞ്ഞത് എടുക്കുക ഇത് നമുക്ക് ആവശ്യമുള്ള അന്തിമ ഇൻഡക്റ്റീവ് ഘടന നൽകുന്നു i j എന്നിവയിൽ ആരംഭിക്കുന്ന പദത്തിന്റെ എഡിറ്റ് ഡിസ്റ്റ്ടെൻസ് ED ചെയ്യുക ai bj ന് തുല്യമാണെങ്കിൽ അത് i പ്ലസ് 1 j പ്ലസ് 1 ന്റെ ED ആണ് ഇത് തുല്യമല്ലെങ്കിൽ അത് 1 ഉം ഒപ്പം എഡിറ്റ് ഡിസ്റ്റ്ടെന്സിന്റെ ഏറ്റവും കുറഞ്ഞതുമാണ് ഈ മൂന്ന് വ്യത്യസ്ത ഉപ പ്രശ്നങ്ങളും പതിവുപോലെ നമ്മൾ ഇത് m പ്ലസ് 1 n പ്ലസ് 1 ആയി കണക്കാക്കുന്നു പക്ഷേ വ്യാഖ്യാനം ഇപ്പോൾ വ്യത്യസ്തമാണ് വാക്കുകളിലൊന്ന് ശൂന്യമാണെങ്കിൽ ഞാൻ വരുത്തേണ്ട മാറ്റങ്ങളുടെ എണ്ണം മറ്റെല്ലാം പരിവർത്തനം ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ആ പദത്തിൽ നിന്നും എല്ലാം ഉൾപ്പെടുത്തുക എന്നതാണ് ഞാൻ b j b j plus 1 മുതൽ b n വരെ കൂടാതെ എനിക്ക് ഒന്നുമില്ലെങ്കിൽ എഡിറ്റ് ഡിസ്റ്റ്ടെൻസ് എന്താണ് ഞാൻ അടിസ്ഥാനപരമായി ധാരാളം അക്ഷരങ്ങൾ ചേർക്കണം എത്ര അക്ഷരങ്ങളുണ്ട് N n മൈനസ് ജെ പ്ലസ് 1 അതിനാൽ നിങ്ങൾ ശൂന്യവും v ന് z സ്ഥാനവും ഉള്ളപ്പോൾ എഡിറ്റ് ഡിസ്റ്റ്ടെൻസ് j n മൈനസ് ജെ പ്ലസ് 1 ആണ് സാധ്യതയനുസരിച്ച് അതുപോലെ തന്നെ ബി ശൂന്യമാണ് നിങ്ങൾ അല്ല ഇത് n മൈനസ് ഐ പ്ലസ് 1 ആണ് നമ്മൾ ചെയ്യണം ഇതുപോലുള്ള എല്ലാം ചേർക്കുക ഇത് ഒരു ചെറിയ വ്യത്യാസമാണ് ഇത് പൂജ്യമല്ല അവിടെയുള്ള അക്ഷരങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള ചെലവാണ് പക്ഷേ ഈ വാക്കിൽ അവ കാണുന്നില്ല എഡിറ്റ് ഡിസ്റ്റ്റെന്സിലെ ഇൻഡക്റ്റീവ് സബ്സ്ട്രക്ചർ എൽസിഎസിലെ പോലെ തന്നെയാണ് ഓരോ സ്ഥാനവും i പ്ലസ് 1 ജെ പ്ലസ് 1 നെ ആശ്രയിച്ചിരിക്കുന്നു കൂടാതെ i പ്ലസ് 1 ജെ ഐജെ പ്ലസ് 1 എന്നിവയാണെങ്കിലും നമ്മൾ മുമ്പ് ചെയ്തതുപോലെ C യെ ആശ്രയിച്ചിരുന്ന അതേ മൂന്ന് അയൽവാസികളുമുണ്ട് പതിവുപോലെ നമുക്ക് ചുവടെ വലത് കോണിൽ ആരംഭിക്കാം വരിയിലൂടെ പിന്നിലേക്കോ കോണിലൂടെ മൂലയിലേക്കോ പ്രവർത്തിക്കുക ഈ സാഹചര്യത്തിൽ ബൌണ്ടറി കണ്ടിഷെൻ പൂജ്യമല്ലെന്ന് ഓർക്കുക പക്ഷേ ഇത് n മൈനസ് ജെ പ്ലസ് 1 ആണ് അതിനാൽ ഞാൻ മുകളിലേക്ക് പോകുമ്പോൾ എണ്ണം വർദ്ധിക്കുന്നു ഇത് എന്റെ അതിർത്തിയാണ് ഇപ്പോൾ t പൊരുത്തപ്പെടുന്നതായി പറയുന്ന എന്റെ ആവർത്തന കാര്യം പ്രയോഗിക്കാൻ എനിക്ക് കഴിയും കാരണം ടിയിലെ എഡിറ്റ് ഡിസ്റ്റ്ടെൻസ് പൂജ്യമാണ് കാരണം എനിക്ക് ഒന്നും ചെയ്യാനില്ല അവയ്ക്കപ്പുറം ഒന്നും ഇല്ല മറ്റെല്ലായിടത്തും ഞാൻ പൊരുത്തപ്പെടാത്തതിനാൽ എഡിറ്റ് ഡിസ്റ്റ്ടെൻസ് ശേഷിക്കുന്ന മൂന്നിന്റെ ഏറ്റവും ചുരുങ്ങിയതായിരിക്കും ശേഷിക്കുന്ന മൂന്ന് പ്ലസ് 1 ന് ഇത് മിനിമം ആണ് അതിനാൽ ഈ സാഹചര്യത്തിൽ ഞാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഇത് നോക്കുക കുറഞ്ഞത് 0 1 2 എന്നിവ 0 പ്ലസ് 1 1 ആണ് 4 2 3 എന്നിവയുടെ ഏറ്റവും കുറഞ്ഞത് 2 ഉം പ്ലസ് 1 3 ഉം മറ്റും ആണ്നിലവിലുള്ളത് നിർമ്മിക്കാൻ ഇപ്പോൾ ഉള്ളതിന്റെ ഏറ്റവും ചുരുങ്ങിയത് പ്ലസ് 1 ആണ് അതിനാൽ ഞാൻ ഇത് ചെയ്യുന്നത് തുടരുകയും ഞാൻ ഇടത്തേക്ക് പോകുകയും ചെയ്യും ഒടുവിൽ ബൈസെക്ടും സീക്രെട്ടും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ എഡിറ്റ് ഡിസ്റ്റ്ടെൻസ് യഥാർത്ഥത്തിൽ 4 ആണെന്ന് ഞാൻ കണ്ടെത്തും ഞാൻ നാല് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് നമ്മൾ നേരത്തെ ചെയ്ത ഇൻഡക്റ്റീവ് നിർവചനം ഉപയോഗിച്ച് മുമ്പത്തെപ്പോലെ ചോദ്യം ഇതിൽ നിന്ന് എങ്ങനെ പരിഹാരം വീണ്ടെടുക്കും എന്നതാണ് അതിനാൽ ഞാൻ പാത പിന്തുടരുന്നു എന്തുകൊണ്ടാണ് എനിക്ക് അവിടെ 4 ലഭിച്ചത് കാരണം ഇത് ഏറ്റവും കുറഞ്ഞത് അല്ലെങ്കിൽ മൂന്ന് സ്ലൈഡ് സമയം 1053 കാണുക s ന് തുല്യമല്ല ഈ മൂന്നിൽ ഏറ്റവും കുറഞ്ഞത് എന്താണ് ഇത് 3 ആണ് അതിനാൽ ഞാൻ തിരികെ പോയി എന്തുകൊണ്ടാണ് ഇത് 3 ഇവിടെയുള്ളത് കാരണം ഇത് ഇവയുടെ ഏറ്റവും കുറഞ്ഞതാണ് ഞാൻ താഴേക്ക് പോയി ഞാൻ താഴേക്കിറങ്ങുമ്പോഴെല്ലാം ഞാൻ i j ൽ നിന്ന് i പ്ലസ് 1 j ലേക്ക് പോകുന്നുവെന്നും നമ്മുടെ കാര്യത്തിൽ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ i plus 1 j i i എന്നിവ ഇല്ലാതാക്കുന്നതിനോട് യോജിക്കുന്നുവെന്നും പറയുന്നു അതുപോലെ ഈ സ്ഥലത്ത് ഞാൻ വലത്തേക്ക് പോകുന്നു ഇതിനർത്ഥം ഞാൻ i j i j plus 1 ൽ നിന്ന് പോകുന്നു ഇത് ഉൾപ്പെടുത്തുന്നതിന് തുല്യമാണ് എനിക്ക് ഇവിടെ നിന്ന് വായിക്കാൻ കഴിയുന്നത് ഞാൻ ഈ v ഇല്ലാതാക്കാൻ പോകുമ്പോൾ ഞാൻ ഇത് ഇല്ലാതാക്കുന്നു തുടർന്ന് ഞാൻ ഇവിടെ വരുന്നു ഞാൻ ഈ r ചേർത്ത് e തിരുകുന്നു ബൈസെക്റ്റിനെ സീക്രെട്ടാക്കി മാറ്റുന്നതിന് ഞാൻ ചെയ്യേണ്ട നാല് മാറ്റങ്ങൾ ഇവയാണ് ഓരോ ദൂരത്തിലുമുള്ള സ്യുഡോ കോഡ് ഏറ്റവും ദൈർഘ്യമേറിയ പൊതുവായ തുടർച്ചയുമായി വളരെ സാമ്യമുള്ളതാണ് സമാരംഭത്തിൽ മാത്രമാണ് പ്രധാന മാറ്റം അതിർത്തിയിലെ മൂല്യങ്ങൾ പൂജ്യമല്ല പക്ഷേ എഡിറ്റിംഗ് പൂർത്തിയാക്കാൻ ആവശ്യമായതെല്ലാം പിന്നെ പതിവുപോലെ ഞാൻ താഴെ വലത് അറ്റത്ത് ആരംഭിച്ച് വലത് നിന്ന് ഇടത് വരികളിൽ താഴെ നിന്ന് മുകളിലേക്ക് നിരകൾ ചെയ്യുന്നു നിലവിലെ മൂല്യം r ന്റെ u ഉം v ന്റെ c ന്റെ v യും രണ്ട് മൂല്യങ്ങൾ തുല്യമാണെങ്കിൽ എഡിറ്റ് ഡിസ്റ്റ്ടെൻസ് അടുത്തതിലേക്ക് ഞാൻ മാറ്റിവച്ചു എനിക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല അല്ലാത്തപക്ഷം ഞാൻ ഉപപ്രശ്നങ്ങളുടെ ഏറ്റവും ചുരുങ്ങിയത് എടുക്കുകയും നിലവിലെ മാറ്റങ്ങൾക്ക് 1 ചേർക്കുകയും അവസാനം 0 0 മൂല്യം നൽകുകയും ചെയ്യുന്നു സങ്കീർണ്ണത ഓർഡർ m തവണ n ആണ് ഇത് മുമ്പത്തേതിന് സമാനമാണ് കാരണം ഈ വലുപ്പത്തിന്റെ ടേബിൾ m തവണ n പൂരിപ്പിച്ച ശേഷം കണക്കുകൂട്ടാൻ സ്ഥിരമായ സമയമെടുക്കും ഇപ്പോൾ ഈ മൂന്ന് പ്രശ്നങ്ങളിലും നമ്മൾ അഭിസംബോധന ചെയ്യാത്ത മറ്റൊരു പ്രശ്നമുണ്ട് അതിനാൽ നമുക്ക് ഇപ്പോൾ ഇത് കൈകാര്യം ചെയ്യാം ഇത് ഒരു സ്പേസ് സങ്കീർണ്ണതയാണ് അതിനാൽ നമുക്ക് പച്ച നിറമുള്ളത് കണക്കാക്കേണ്ട ഈ ടേബിൾ m തവണ n ആണ് എന്നാൽ ഉദാഹരണത്തിന് ഇത് കണക്കുകൂട്ടിയ രീതി ഈ നിരയും പിന്നീട് ഈ നിരയും പിന്നെ ഈ നിരയും മറ്റും കണക്കുകൂട്ടുകയായിരുന്നു ഏത് ഘട്ടത്തിലും ഞാൻ ഈ രണ്ടാമത്തെ നിര കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ആദ്യ നിര മാത്രമേ വായിക്കൂ എനിക്ക് മൂന്നാമത്തെ നിര ആവശ്യമുള്ളപ്പോൾ ഈ നിര ഇപ്പോൾ ആവശ്യമില്ല കാരണം മൂന്നാമത്തെ നിര വലതുഭാഗത്തുള്ള രണ്ടാമത്തെ നിരയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു എനിക്ക് ആവശ്യമെങ്കിൽ ഞാൻ നിര പ്രകാരം നിര പൂരിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് അടുത്ത നിരയും എന്റെ വലതുവശത്തുള്ള നിരയും നിലവിലെ നിരയും മാത്രമേ ആവശ്യമുള്ളൂ അല്ലെങ്കിൽ എനിക്ക് വരി അനുസരിച്ച് ആവശ്യമുണ്ടെങ്കിൽ അടുത്ത വരിയും നിലവിലെ വരിയും അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഞാൻ രണ്ട് നിരകളോ രണ്ട് വരികളോ സൂക്ഷിക്കുമ്പോൾ എനിക്ക് ഇത് പൂർണ്ണമായും 0 0 ലേക്ക് കണക്കുകൂട്ടാൻ കഴിയും യഥാർത്ഥത്തിൽ m തവണ n വലുപ്പ ടെബിളിനെ സംഭരണമായി ഭരിക്കേണ്ട ആവശ്യമില്ല എനിക്ക് ഇപ്പോഴും n തവണ കണക്കുകൂട്ടേണ്ടതുണ്ട് പക്ഷേ സമയ സങ്കീർണ്ണത m തവണ n ആയി തുടരുന്നു അതിനാൽ സമയം m തവണ n ആണ് ഈ ഇടം കുറയ്ക്കാൻ കഴിയുമെന്ന് നമ്മൾ പറയുന്നത് n രണ്ടെണ്ണത്തിൽ ചെറുതാണെന്ന് പറഞ്ഞാൽ രണ്ട് നിരകൾ സൂക്ഷിച്ച് ഈ ഇടം ടോപ്പർ n കുറയ്ക്കാൻ കഴിയും ഇപ്പോൾ ഞാൻ എങ്ങനെ പരിഹാരം വീണ്ടെടുക്കും എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം കാരണം പരിഹാരത്തിൽ ഞാൻ മുഴുവൻ കാര്യങ്ങളും കണ്ടെത്തുന്നു നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ട്രാക്ക് സൂക്ഷിക്കാൻ കഴിയും ഓരോ എൻട്രിയുമായി ബന്ധപ്പെട്ട പരിഹാരം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും അതിനാൽ അത് പോലും n സ്പേസ് ക്രമത്തിൽ ചെയ്യാൻ കഴിയും നൽകിയിരിക്കുന്ന സംഖ്യാ പരിഹാരത്തിനായി സാക്ഷിയെ കണക്കുകൂട്ടാൻ പോലും നിങ്ങൾക്ക് ഈ ടേബിൾ ആവശ്യമില്ല നമ്മുടെ ഡൈനാമിക് പ്രോഗ്രാമിംഗിൽ നമുക്ക് പരിമിതമായ അയൽരാജ്യ ആശ്രിതത്വമുള്ള ഈ പ്രശ്നങ്ങളിലെല്ലാം നിങ്ങൾക്ക് പലപ്പോഴും വളരെ കുറച്ച് സ്ഥലം മാത്രമേ ചെയ്യാൻ കഴിയൂ അപ്പോൾ നിങ്ങൾക്ക് നൽകിയ യഥാർത്ഥ ടേബിളിന്റെ അടിസ്ഥാനത്തിൽ ഇത് ആവശ്യമാണെന്ന് തോന്നുന്നു